വൈദ്യുതകാന്തിക തരംഗങ്ങൾ വഹിക്കുന്ന ഊർജ്ജവും ആവേഗവും ഉദാഹരണങ്ങൾ മുമ്പത്തെ പ്രഭാഷണത്തിൽ ഈഎം തരംഗങ്ങൾക്ക് തീവ്രത ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടു അത് c ഗുണം ശരാശരി ഊർജ്ജ സാന്ദ്രത u അത് ഒരു പകുതി എപ്സിലോൺ 0 e 0 ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ കൂടാതെ ഈഎം തരംഗങ്ങൾക്ക് മൊമെന്റം ഉണ്ട് അത് തുല്യമാണ് u പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം തൽഫലമായി ഒരു സമ്മർദ്ദം പ്രയോഗിക്കാൻ കഴിയും ഊർജ്ജo വഹിക്കാനും നിങ്ങൾക്ക് ചൂട് നൽകാനും കഴിയുന്നു ഇപ്പോൾ ഈ പ്രഭാഷണത്തിൽ ഏത് തരത്തിലുള്ള വൈദ്യുതകാന്തികക്ഷേത്രങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് ഒരു ആശയം നൽകാൻ ഞാൻ 2 ഉദാഹരണങ്ങൾ പരിഹരിക്കാൻ പോകുന്നു സാധാരണ വെളിച്ചത്തിൽ നിന്ന് വരുന്ന വൈദ്യുതകാന്തിക വികിരണം അല്ലെങ്കിൽ അവ ഏത് തരത്തിലുള്ള സമ്മർദ്ദമാണ് പ്രയോഗിക്കുന്നത് അതിനാൽ ഈ പ്രഭാഷണം പ്രധാനമായും അക്കങ്ങളെക്കുറിച്ചാണ് ഉദാഹരണമായി ഇപ്പോൾ നമുക്ക് ഒരു അറുപത് വാട്ട് ബൾബ് എടുക്കാം അതിനർത്ഥം പ്രകാശം പുറത്തുവരുന്നത് അറുപത് വാട്ട് എന്നതിന് തുല്യമാണ് ബൾബിൽ നിന്ന് ഒരു മീറ്റർ അകലെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ആംപ്ലിറ്റ്യൂഡ് മാഗ്നറ്റിക് ഫീൽഡ് ആംപ്ലിറ്റ്യൂഡ് എന്നിവ കണക്കാക്കുക ബൾബ് ഒരു പോയിന്റ് സോഴ്സ് ആയി കണക്കാക്കാം ഞാൻ ഈ ബൾബ് ഒരു പോയിന്റ് സോഴ്സ് ആയി എടുക്കുന്നു അത് ഒരു ഐസോട്രോപിക് ആയി വികിരണം ചെയ്യുന്നു അതായത് വികിരണം ചെയ്യുന്ന പ്രത്യേക ദിശകളൊന്നുമില്ല അതിനാൽ എന്റെ പക്കലുള്ളത് ഒരു ബൾബാണ് അത് എല്ലാ ദിശയിലും വികിരണം നൽകുന്നു ഒപ്പം ബന്ധപ്പെട്ട വൈദ്യുത മണ്ഡലം എന്താണെന്ന് ഒരു മീറ്ററിൽ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ വൈദ്യുതകാന്തിക തരംഗങ്ങളെല്ലാം റേഡിയൽ ദിശയിൽ പ്രചരിപ്പിക്കുന്നു ഒരു പ്രത്യേക ദിശ നമുക്ക് നോക്കാം അത് വലത് വൈദ്യുത മണ്ഡലത്തിലേക്ക് പോകുന്ന ലംബമായിരിക്കുമെന്നും അതിനാൽ കാന്തികക്ഷേത്രമാകുമെന്നും കാണാം പെർ യൂണിറ്റ് ഏരിയയിൽ വഹിക്കുന്ന പവർ ഈ സാഹചര്യത്തിൽ സെക്കൻഡിൽ അറുപത് ജൂൾസ് ഹരണം നാല് പൈ ആർ സ്ക്വയർ ആർ നമ്മൾ അത് ഒരു മീറ്റർ ആയി എടുത്തു അതിനാൽ ഇത് ഒരു മീറ്റർ സ്ക്വയറിന് പതിനഞ്ച് ഓവർ പൈ വാട്ടുകളാണ് അതാണ് പവർ പെർ യൂണിറ്റ് ഏരിയയ്ക്ക് അല്ലെങ്കിൽ പെർ യൂണിറ്റ് സമയത്തിന് പെർ യൂണിറ്റ് ഏരിയയ്ക്ക് ഈ പവർ എന്താണ് ഇത് പോയിന്റിംഗ് വെക്റ്ററിന് തുല്യമാണ് അതിനാൽ ഈ c u ഉള്ളത് c ഗുണം ഒരു പകുതി എപ്സിലോൺ 0 e 0 സ്ക്വയർ പതിനഞ്ചു ബൈ pi ക്ക് തുല്യമാണ് ഞാൻ e 0 കണക്കാക്കാൻ ആഗ്രഹിക്കുന്നു e 0 അതിനാൽ മുപ്പത് ബൈ pi c സ്ക്വയർ റൂട്ട് തുല്യമായിരിക്കും 4 കൊണ്ട് ഗുണിക്കാം അതിനാൽ 120 ന്റെ സ്ക്വയർ റൂട്ട് ബൈ നാല് pi c തുല്യമായ 129 ന്റെ സ്ക്വയർ റൂട്ട് 9 ഹരം 3 ഗുണo 108 അതിനാൽ ഇത് 3600 ആണ് ഇത് എനിക്ക് ഒരു മീറ്ററിന് 60 വോൾട്ട് നൽകുന്നു 120E0215E030π c60Vm നിങ്ങൾ 60 വാട്ട് ബൾബിൽ നിന്നും ഒരു മീറ്റർ അകലെ നിൽക്കുകയാണെങ്കിൽ 1 മീറ്റർ അകലെ ബൾബിൽ നിന്ന് പുറത്തുവരുന്ന വികിരണവുമായി ബന്ധപ്പെട്ട ഒരു വൈദ്യുത മണ്ഡലം നിങ്ങൾക്കുണ്ട് ഇത് സങ്കൽപ്പിക്കുക ഒരു മീറ്ററിൽ 60 വോൾട്ട് ആയി ഒരു മീറ്ററിൽ വോൾട്ട് വ്യത്യാസം 60 വോൾട്ട് ആകുക അതാണ് വൈദ്യുത മണ്ഡലം കൂടുതൽ ദൂരം നിങ്ങൾ ഒരു വലിയ ദൂരത്തേക്ക് വൈദ്യുതി വ്യാപിക്കുന്നു അതിനാൽ വൈദ്യുത മണ്ഡലം താഴേക്ക് പോകും അനുബന്ധ കാന്തികക്ഷേത്രത്തെക്കുറിച്ച് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും കാന്തികക്ഷേത്രത്തിന്റെ വ്യാപ്തി ഒന്നുമല്ല മറിച്ച് e 0 ബൈ c ന് തുല്യമാണ് അതിനാൽ ഇത് 60 ഓവർ 3 ഗുണം 108 ടെസ്ല ഇത് 20 ഗുണം 10 8 ഇത് 2 ഗുണം 10 7 ടെസ്ല അതിനാൽ ബന്ധപ്പെട്ട കാന്തികക്ഷേത്രം ശരിക്കും വളരെ ചെറുതാണ് ഉദാഹരണം 2 എന്ന നിലയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ലേസർ ലൈറ്റ് നൽകുന്ന ഒരു ലേസർ പോയിന്ററിനെക്കുറിച്ചാണ് ലാബിൽ ഓഡിറ്റോറിയത്തിൽ കാണുന്ന ഈ സാധാരണ ലേസർ പോയിന്റ് നമുക്ക് പറയാം ഇത് 20 മില്ലി വാട്ട് പവർ ആണെന്ന് നമുക്ക് പറയാം ഒരു 20 മില്ലി വാട്ട് പവർ വരുന്നു ലേസർ ലൈറ്റ് ഒരു ബീം ആയി പോകുന്നതിനാൽ ഈ ബീമിന്റെ അർദ്ധവ്യാസം ഒരു മില്ലിമീറ്ററാണെന്ന് നമുക്ക് പറയാം അതിനാൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ഈ ലേസർ ഒരു ഉപരിതലത്തിൽ എത്രമാത്രം സമ്മർദ്ദം ചെലുത്തുന്നു അവിടെ അത് പൂർണ്ണമായും ആഗിരണം ചെയ്യപ്പെടുന്നു അതിനാൽ നമ്മൾ കാണുന്നത് എനിക്ക് ഒരു ഉപരിതലമുണ്ട് അതിൽ വരുന്ന ലേസർ ബീം പൂർണ്ണമായും ആഗിരണം ചെയ്യപ്പെടും സമ്മർദ്ദം ഉണ്ടാകുന്നത് മൊമെന്റം കൈമാറ്റം ചെയ്യപ്പെടുന്നത് പെർ യൂണിറ്റ് ടൈം പെർ യൂണിറ്റ് ഏരിയയിൽ സമ്മർദ്ദത്തിന് തുല്യമായതിനാലാണ് ഞങ്ങൾക്ക് ഒരു ഏരിയ pi r സ്ക്വയറിന് തുല്യമാണ് അത് 10 6 pi മീറ്റർ സ്ക്വയറിന് തുല്യമാണ് ഞങ്ങൾക്ക് 20 മില്ലി വാട്ടിന് തുല്യമായ പവർ ഉണ്ട് അല്ലെങ്കിൽ 2 ഗുണം 10 2 വാട്ട് ആണ് അതിനാൽ s അല്ലെങ്കിൽ പോയിന്റിംഗ് വെക്റ്റർ 2 ഗുണം 10 2 ഹരണം 10 6 ആണ് ഇത് 2 ഗുണം 104 pi ജൂൾസ് പെർ സെക്കൻഡ് മീറ്റർ ആണ് ഇത് s s എന്നത് u ഗുണം c ക്ക് തുല്യമാണ് ഇവിടെ u ഊർജ്ജ സാന്ദ്രതയാണ് അതിനാൽ u s ഓവർ c ക്ക് തുല്യമാണ് അത് 2 ഗുണം 104 ഓവർ 3 ഗുണം 108 ഇത് 2 ഓവർ 3 pi ഗുണം 10 6 ജൂൾസ് പെർ മീറ്റർ ക്യൂബ് ആണ് മൊമെന്റം എത്രത്തോളം വർധിച്ചു Areaπr210 6π m2Power20 mW2×10 2 W S2×10 210 62×104Js m2 uSc2×104π×3×10823π10 6Jm2 മൊമന്റം ഫ്ലോ എന്നതിന്റെ അർത്ഥം അതായതു ഒരു ഉപരിതലത്തിലുടനീളം മൊമന്റം പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈമിൽ u ആണ് ഇത് 2 ഓവർ 3 pi ഗുണം 10 6 ഇപ്പോൾ എനിക്ക് ഇത് മൊമെന്റം kg മീറ്റർ പെർ സെക്കന്ഡ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം ആയി എഴുതാം ഇതാണ് മൊമന്റം കൈമാറ്റം ചെയ്യപ്പെടുന്നു അതിനാൽ സമ്മർദ്ദത്തിലേക്ക് പോകുന്നത് ഏകദേശം പോയിന്റ് 67 ഓവർ 3 ഏകദേശം പോയിന്റ് 2 2 അല്ലെങ്കിൽ 2 പോയിന്റ് 2 ഗുണം 10 7 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വർ ഇതാണ് ഉത്തരം 2×10 7Nm2 അതിനാൽ ഈ ഉദാഹരണങ്ങളിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതന്നത് നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്ന വികിരണവുമായി ഏകദേശം ഫീൽഡ് എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും സമ്മർദ്ദം എത്രയാണെന്നും മീറ്ററിന് 10 വോൾട്ട് ക്രമത്തിൽ ഫീൽഡ് വളരെ വലുതാണെന്നും പ്രകാശം പ്രയോഗിക്കുന്ന മർദ്ദം വളരെ ചെറുതാണെന്നും അത് 10 6 അല്ലെങ്കിൽ 10 7 നിങ്ങൾ കാണുന്നു